ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനുകൾ I എല്ലാവർക്കും നമസ്ക്കാരം എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്നിവയെക്കുറിച്ചുള്ള നമ്മളുടെ എൻപിടിഎൽ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സുകളിലേക്ക് സ്വാഗതം നമ്മൾ ഇപ്പോഴുള്ളത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനുകളെ കുറിച്ചുള്ള മൊഡ്യൂൾ നമ്പർ 25 ലാണ് അവസാന ക്ലാസുകളിൽ എന്താണ് ഒരു ലംബ നൽകുന്നത് എന്നെല്ലാം നമ്മൾ കണ്ടിരുന്നു അവിടെ നമ്മൾ ലംബ തല പ്രൊജക്ഷനുകൾ മാത്രമേ നമ്മൾ കാണാൻ ശ്രമിക്കുന്നുള്ളു ഉദാഹരണത്തിന് പരന്ന വളരെ നേർത്ത ഒരു വസ്തു ഒരു മെക്കാനിക്കൽ ഘടകം അത്തരത്തിലുള്ള വലുപ്പമുള്ളതാണെങ്കിൽ അത് എങ്ങനെ കാണപ്പെടുന്നു ഉദാഹരണത്തിന് സാധാരണ ഗാസ്കറ്റുകൾ ഏതെങ്കിലും ഒന്ന് മതിയായതായിരിക്കാം നമുക്ക് ഈ ഗ്യാസ്ക്കറ്റ് നമുക്ക് ഉണ്ട് അതിനാൽ ഒരുപക്ഷേ ഒരു ബോൾട്ട് ഉണ്ടാകും അങ്ങനെ ഈ മുഴുവൻ വസ്തുവും ജ്യാമിതിയുമായി യോജിപ്പിലെത്തിക്കുവാനായി ചെറുതായി അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ കഴിയുന്നതാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ അത്തരം വസ്തുക്കൾ നിലവിലുണ്ട് അതിനാൽ ഇതിന്റെ വിവിധ വ്യൂസ് ഉണ്ടാകും നമ്മൾ ഒരു ഗ്ലാസ് ബോക്സ് രീതിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഫ്രണ്ട് വ്യൂ ഇത് പോലെയുള്ള ഒന്നായിരിക്കും നമുക്ക് ലഭിക്കുക അതിനാൽ നമുക്ക് ഗ്ലാസ് ബോക്സ് രീതി ഉപയോഗിക്കാം ഇതിനുള്ള ദിശ ഒരുപക്ഷേ ഇതാണ് ഫ്രന്റ് വ്യൂ എങ്കിൽ നമ്മൾ അത് വീക്ഷിക്കുകയാണെങ്കിൽ ഈ വട്ടത്തിലുള്ള കോൺ മുഴുവനായും ചരിഞ്ഞിരിക്കുന്ന ഇതും കൂടാതെ ഇതും കാഴ്ച ദിശയിൽ ഒരു നേർരേഖ ആയിത്തീരുന്നു കനം കണക്കിലെടുക്കുമ്പോൾ ചതുരാകൃതിയിലുള്ള തുടർച്ചയായ ഈ ഭാഗം നമുക്ക് ലഭിക്കും ഗ്ലാസ് ബോക്സ് ലോംഗ് ഡാഷ് ഷോർട്ട് ഡാഷ് ലോംഗ് ഡാഷ് ഷോർട്ട് ഡാഷ് തരത്തിലുള്ള രേഖ ഉണ്ടാകും സമാനമായി ഇവിടെയും കാരണം ഇത് ഒരു ആരം സൃഷ്ടിക്കുന്നു അതിനാൽ നമുക്ക് വീണ്ടും ലോംഗ് ഡാഷ് പോലെ നമുക്ക് കാണാനാകും ഈ വിടവ് അത് എന്തുതന്നെ ആയാലും നമുക്ക് അവിടെ വീണ്ടും ഉണ്ടാകും ഈ പ്രൊജക്ഷൻ രേഖകൾ ഉണ്ടായിരിക്കും അതുപോലെ ഈ വൃത്തം നമുക്ക് കാണാൻ കഴിയില്ല നമ്മൾ ഈ സൈഡ് വ്യൂ എന്നിവ ലഭിക്കുന്ന ഒരു സ്ഥാനത്തായിരിക്കും നമ്മൾ ഒരു കാര്യം നാം എപ്പോഴും ശ്രദ്ധിക്കണം നമ്മളുടെ സൈഡ് വ്യൂവും രീതിയാണോ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് അതിനെ അടിസ്ഥാനമാക്കി ഈ വശത്ത് അതിനാൽ ഈ സാഹചര്യത്തിൽ ഈ ജ്യാമിതി നോക്കുന്നതിലൂടെ ഇത് അതിനൊപ്പമാണെന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും ഇത് അതിനോടൊപ്പമാണുള്ളത് അതിനർത്ഥം ഇത് ഫ്രന്റ് വ്യൂ ആണെന്ന് നമ്മൾ ഇതിനകം പഠിച്ചുകഴിഞ്ഞു ഇനി ഇത് സിലിണ്ടർ തിരഞ്ഞെടുക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതായിരിക്കും ലഭിക്കുക മറ്റ് വ്യൂസും വരയ്ക്കുക എന്നതാണ് നമുക്ക് ഓർത്തു നോക്കാം ആദ്യത്തെ ക്വാഡ്രന്റ് പ്രൊജക്ഷനിൽ ഇത് ദൃശ്യവൽക്കരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ വലതുവശത്ത് നിന്ന് ഇടത് വശത്തേക്ക് നമുക്ക് ദൃശ്യവൽക്കരിക്കാം അങ്ങനെയാണെങ്കിൽ ഈ വൃത്താകൃതിയിലുള്ള മുഴുവൻ ഭാഗവും ഈ വശത്ത് ഒരു വൃത്തമായി നമുക്ക് കാണാനാകും അവിടെ ലോങ്ങ് ഡാഷ് വസ്തുവാണെന്ന് സൂചിപ്പിക്കാനുതകുന്നതാണ് അതുപോലെ ഇത് ഒരു സിലിണ്ടറിക്കൽ നിർമ്മിക്കേണ്ടതിന്റെ ആവശ്യകതയില്ല കാരണം അത് ഏതുവിധത്തിലായാലും അതെ ദീർഘചതുരം തന്നെയായിരിക്കും സൃഷ്ടിക്കാൻ പോകുന്നത് അതിനാൽ ഇത് ആവശ്യമില്ല നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം നമുക്ക് ടേണിങ് ഓപ്പറേഷനിൽ ദിശയായി തിരഞ്ഞെടുക്കാം ഈ ഭാഗം നമുക്ക് ഒരു ദീർഘചതുരാകൃതിയിൽ കാണാനാകും അതിനാൽ ഫ്രന്റ് വ്യൂവിനായി രേഖ ഉണ്ടായിരിക്കും ഇപ്പോൾ ഈ ബി മുഴുവൻ നീക്കംചെയ്തുവെന്നാണ് രണ്ട് വ്യൂസ് അതിൽ ധാരാളം ദ്വാരങ്ങൾ അടങ്ങിയിരിക്കുന്നു ഈ വസ്തു ദൃശ്യവൽക്കരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ സിലിണ്ടർ

അതിനാൽ ഈ ദ്വാരങ്ങൾ ഉള്ള ഭാഗത്ത് നമുക്ക് ആ ലോങ്ങ് ഡാഷ് ചെയ്തിട്ടുണ്ട് അതിനാൽ സ്പർശരേഖകൾ ഈ പ്രൊജക്ഷൻ ലഭിക്കും

ദ്വാരങ്ങൾ സ്ഥിതിചെയ്യുന്ന സ്ഥലമാണിത് അതിനാൽ ഇവിടെ നമുക്ക് ഡാഷ്ഡ് രേഖകൾ ഉണ്ടായിരിക്കും എന്നതിനെ സൂചിപ്പിക്കുന്നു ഇത് മറ്റൊരു ദ്വാരമാണ് അതുപോലെ ഇവിടെ ഒരു ദ്വാരം ഈ സ്ഥലങ്ങളിൽ ഒന്ന് കൂടി അതിനാൽ അതിനെ പ്രതിനിധീകരിക്കുന്നതിന് നമുക്ക് ഈ ഡാഷ്ഡ് രേഖ ഉണ്ടായിരിക്കും സമാനമായി ഇവിടെയും ഇതാണ് ഫ്രന്റ് വ്യൂ മുഴുവനായും ഈ സ്പർശ രേഖകളാൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നു മാത്രമല്ല ഈ വരികൾ ഈ അധിക ഭാഗത്തെ വീണ്ടും ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു അതിനാൽ അത് നിർമ്മിച്ചു കഴിഞ്ഞാൽ നമുക്കത് നീക്കംചെയ്യാം ഇവിടെ ഒരു ദ്വാരം ഉണ്ട് അതിനാൽ നമുക്ക് ഈ സ്പർശ രേഖകൾ ഉണ്ടെങ്കിൽ ഇത് വീണ്ടും ഈ വരികളും ദ്വാര കേന്ദ്രവും കൊണ്ട് പരിമിതപ്പെടുത്തിയിരിക്കുന്നു നമ്മൾ ഫ്രണ്ട് വ്യൂ നമുക്ക് ആവശ്യമില്ല ഈ വ്യൂ തിരഞ്ഞെടുക്കണം തുടർന്ന് ഈ മുഴുവൻ കാര്യങ്ങളും ഇത്തരത്തിലുള്ള ഒരു വസ്തുവായി മാറുന്നു ഈ വൃത്തം ഈ വൃത്തവുമായി യോജിക്കുന്നു ഈ വക്രം ഇതിനോട് യോജിക്കുന്നു ഈ ദ്വാരം അതിനോടും ഇവിടെയുള്ളതിനോടും യോജിക്കുന്നു ഇത് ഒരു ദ്വാരവും അതിനൊരു മധ്യ ബിന്ദുവും ഉണ്ട് അതിനാൽ ലോംഗ് ഡാഷ് രേഖകൾ ഉപയോഗിച്ച് നമ്മൾ അത് കാണിക്കുന്നു ഇവിടെ നമുക്ക് ഒരു ആരം കൂടി ഉണ്ട് അതിനാൽ ഒരു മധ്യ ബിന്ദുവിനെ പ്രതിനിധീകരിക്കുന്നതിന് നമുക്ക് ഈ ലോങ്ങ് ഡാഷ് നിന്ന് നമ്മൾ വീക്ഷിക്കുമ്പോൾ ഈ രേഖകൾ ദൃശ്യമാകേണ്ടതുണ്ട് അതിനാൽ ആ വരികൾ നമുക്ക് അവിടെ കാണാം ഈ അർദ്ധ വൃത്താകൃതിയിലുള്ള ഭാഗം മുഴുവൻ താഴത്തെ തലത്തിലേക്ക് പ്രൊജക്റ്റ് രേഖകൾ ഉണ്ട് നമ്മൾ അത് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ വളവുകൾ കാണാനാകും അതിനാൽ നമുക്ക് ഇവിടെ ആ വളവുകൾ അഥവാ അർദ്ധവൃത്തങ്ങളുണ്ട് അതുപോലെ ഈ അർദ്ധവൃത്തം മുകളിലെ കാഴ്ചയിൽ ദിശ നമുക്ക് സൈഡ് വ്യൂവിൽ നമ്മൾ ഇവിടെ പ്രതിനിധീകരിക്കുന്നു ഒരു ദ്വാരം ഇവിടെ നിന്ന് ആരംഭിച്ച് അവിടെ അവസാനിക്കുന്നു അതിനാൽ ഇവിടെ ഡാഷ്ഡ് രേഖ ഉണ്ടായിരിക്കും സൈഡ് വ്യൂവിൽ രേഖ ഉണ്ടായിരിക്കും ഇതാണ് ഗ്ലാസ് ബോക്സ് രീതി

ഇപ്പോൾ വ്യൂസിൽ നിന്ന് നമുക്ക് വസ്തു ദൃശ്യവൽക്കരിക്കാൻ കഴിയുമോ നിങ്ങൾ അഭ്യസിക്കേണ്ട പരിശീലനപാഠമാണിത് അതിനാൽ ബോക്സ് രീതിയാണെങ്കിൽ ഉള്ള വ്യൂസ് ഇവയെല്ലാമാണ് എവിടെയാണ് ഫ്രന്റ് വ്യൂ

അതിനർത്ഥം വസ്തു എന്തുതന്നെ ആയാലും നമുക്ക് ഒരു ബോക്സ് പോലെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ സൈഡ് വ്യൂവിനാലും ചെയ്യാൻ പോകുന്നു അതിനാൽ ഈ രീതിയിൽ നമ്മൾ ഈ വസ്തുവിനെ മനസ്സിലാക്കാൻ പോകുന്നു അതിനാൽ നമുക്ക് അവ ശ്രദ്ധാപൂർവ്വം നോക്കാം വസ്തുവിന്റെ ഫ്രണ്ട് വ്യൂ നിങ്ങൾക്ക് ഊഹിക്കാമോ ഇതുപോലൊന്ന് ഉണ്ട് അവിടെ അതിനാൽ ഇടമുറിയാതെയുള്ള രേഖകൾ ഉള്ളിടത്ത് ഒരു തള്ളിനിൽക്കുന്ന ഭാഗം ഉണ്ടായേക്കാം ഒരുപക്ഷെ ഒരു താഴ്ചയുള്ള ഭാഗം കണ്ടെത്തിയേക്കാം ഉദാഹരണത്തിന് ഇത് ഒരു സ്റ്റെപ് രേഖകൾ ഒരുപക്ഷേ ഇത് വൃത്താകൃതിയിലുള്ള ഒരു ദ്വാരമായിരിക്കാം അതിനാൽ വീണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റെപ് പോലെയുള്ള ഒന്ന് കാണാം അതിന് രണ്ട് കാലുകൾ ഉണ്ട് കാരണം ഈ അച്ചുതണ്ടും അവിടെയുണ്ട് അതിനർത്ഥം ആ വസ്തുവിന്റെ മുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ സിലിണ്ടർ പോലെ ഒരു ഭാഗം അവിടെ ഉണ്ടായിരിക്കുമെന്നാണ് അതിനാൽ ഇത് ആ വസ്തുവിന്റെ മുൻവശമാണ് അതിനാൽ മുൻവശത്ത് ഒരുപക്ഷേ നമുക്ക് അവിടെ ഒരുതരം കാലുകൾ പോലെയുള്ള ഭാഗമായിരിക്കാം കാണാൻ സാധിക്കുക പെട്ടെന്നുള്ള മാറ്റം ആയിരിക്കാം ഒരുപക്ഷെ വീണ്ടും നമുക്ക് അത്തരത്തിലുള്ള കാലുകളുള്ള ഒരു വസ്തുവായിരിക്കാം ഉണ്ടാവുക ഇവിടെ നമ്മൾ വീണ്ടും സമാന്തരമായ ഒന്ന് വരയ്ക്കുകയാണെങ്കിൽ ഒരുപക്ഷേ വീണ്ടും അത് ഈ തരത്തിലുള്ള ഒരു സ്റ്റെപ് ദിശയിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ വസ്തു ദൃശ്യവൽക്കരിക്കാനാകുമോ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ കാലുകൾ കാണാവുന്നതാണ് കൂടാതെ അവിടെ പെട്ടെന്നുള്ള ഒരു ഉയർച്ച ഉണ്ട് അത് ഈ സ്ഥലത്ത് കണ്ടുമുട്ടുന്നു അതിനുശേഷം അവിടെ ഒരു സിലിണ്ടർ പോലെയുള്ള വസ്തുവായിരിക്കാം നമ്മൾ കാണാൻ പോകുന്നത് ഈ ദ്വാരം അത് അവിടെ ഉണ്ടായിരിക്കാം അതിനാൽ ഒരുപക്ഷേ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ദ്വാരം പോലെ ഒന്ന് നമുക്ക് കാണാനാകും അതിനാൽ ഇത് ഒരു സിലിണ്ടറിക്കൽ നിന്ന് നമ്മൾ ഇങ്ങനെയാണ് ഊഹിച്ചെടുക്കേണ്ടത് ഈ വസ്തുവിന്റെ ടോപ് വ്യൂ ഈ ദിശയിലായിരിക്കാം ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആദ്യ നിരീക്ഷണമാണിത് അതിനാൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം സാധ്യമാകുമ്പോൾ നമ്മൾ ഇത് നോക്കുകയാണെങ്കിൽ ഈ ബ്ലോക്ക് ആയിരിക്കില്ല അതിനാൽ ഈ ദിശയിലേക്ക് നാം നോക്കേണ്ടതായിട്ടുണ്ട് ഇത് ഒരു ഫ്രന്റ് വ്യൂ ഒരു വൃത്തം പോലെയുള്ള ഒന്നാണ് നമുക്ക് കാണാനാകുന്നത് അതിനർത്ഥം ഈ ദിശയിൽ ഒരു വൃത്തം പോലെ എന്തെങ്കിലും ഉണ്ടായിരിക്കണം പക്ഷേ ആ ദിശയിലല്ല അതുപോലെ നമ്മൾ ഇവിടെ സൈഡ് വ്യൂവിൽ ചെയ്ത വൃത്തം പോലെ തോന്നുന്നു നമ്മൾ അത് ആ രീതിയിൽ മനസ്സിലാക്കാൻ പോകുന്നു അതിനാൽ ഈ കാരണങ്ങളാൽ നമുക്ക് പൂർണ്ണമായ വസ്തുവിലേക്കു നോക്കാം വസ്തുവിന്റെ ഫ്രന്റ് വ്യൂവിൽ വീണ്ടും അത് ആ തലത്തിലേക്ക് പോകുന്ന കൂർത്ത ഒരു ഭാഗമാണ് അതിനാൽ നമ്മൾ ഈ മുൻവശം താഴെ വരെ എത്തേണ്ടതാണ് കൂടാതെ ഇത് അടഞ്ഞ തരത്തിലുള്ള ഒന്നാണ് അതിനാൽ അടഞ്ഞിരിക്കുന്ന ഒരു അടിഭാഗം ഉണ്ടായിരിക്കണം ആ രീതിയിൽ നമ്മൾ സൈഡ് വ്യൂവിൽ രേഖകൾ ഉള്ള ഒരു വൃത്താകൃതിയിലുള്ള ദ്വാരവും അവിടെ ഉണ്ട് അതിനാൽ ഒരു ഫ്രന്റ് വ്യൂ പൊരുത്തപ്പെടുന്നതാണോ എന്ന് നമുക്ക് യുക്തിസഹമായി ഊഹിക്കാൻ കഴിയുമോ അതിന്റെ അടിസ്ഥാനത്തിൽ ദൃശ്യപരമായി ഇത്തരത്തിലുള്ള ത്രിമാന വസ്തുക്കൾ നിർമ്മിക്കുന്നതിന് മുന്നോട്ടും പിന്നോട്ടും ഉള്ള ഈ ആവർത്തനങ്ങൾ നടത്തേണ്ട അവസ്ഥയിലായിരിക്കണം നമ്മൾ അതിനാൽ വ്യൂസ് രീതിയിൽ എങ്ങനെ കാണപ്പെടുന്നുവെന്ന് നമ്മൾ പരിശീലിക്കണം